ഈ പിസിബിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്അതിന്റെ ബ്ലോക്ക് ലെവൽ സ്കീമാറ്റിക് എന്താണ്അത് എങ്ങനെ പ്രവർത്തിക്കുംഅത് എങ്ങനെ ഊർജ്ജം സംഭരിക്കുംബാറ്ററിയില്ലാതെ ഈ ബെയറിംഗ് താപനില എനിക്ക് എങ്ങനെ വായിക്കാൻ കഴിയും ഇൻവേസീവ് അല്ലാത്തത്ബാറ്ററിയും ഇല്ലാത്തത് മാജിക്കിലൂടെ മൂല്യങ്ങൾ ഓട്ടോമൊബൈൽ ഡ്രൈവറിന്റെ ഡാഷ്ബോർഡിൽ എങ്ങനെ ദൃശ്യമാകുന്നു ഞാൻ ഒരു ഓട്ടോമൊബൈൽ ഉദാഹരണമായി എടുത്ത് എന്നേ ഉളളൂ പക്ഷേ അത് ഏതെങ്കിലും വർക്ക്ഷോപ്പ് ആകാം മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് മെഷീനുകളായ ലെയ്ത്ത് മില്ലിംഗ് മെഷീനുകൾതുടങ്ങിയവയും ആകാം ബെയറിംഗുകൾ ഉള്ളിടത്ത് കറങ്ങുന്ന ഘടകങ്ങൾകറങ്ങുന്ന യന്ത്രങ്ങൾ ഉള്ളിടത്ത് നിങ്ങൾക്ക് ഒരു ബെയറിംഗ് ഉണ്ടായിരിക്കേണ്ടിവരും ബെയറിംഗ് താപനിലയെ അളക്കുന്നതിനുള്ള മുഴുവൻ ശ്രദ്ധയും കൊടുക്കേണ്ടത് ഇവിടെ ആണ് അതിനാൽ നമുക്ക് തിരികെ പോയി ഈ സർക്യൂട്ട് നോക്കാം ബ്ലോക്ക് ലെവൽ സർക്യൂട്ട് ഡയഗ്രം ഞാൻ സൂചിപ്പിച്ച നിയോഡീമിയം കാന്തം ഉള്ള കറങ്ങുന്ന ബെയറിംഗ് ഇവിടെ നിങ്ങൾക്ക് കാണാം അതിനാൽ ഇതാണ് നിയോഡീമിയം കാന്തം ഒരു ആർക്ക് ഇവിടെയുണ്ട് മറ്റൊരു ആർക്ക് ഇവിടെയുണ്ട് രണ്ട് ആർക്കുകളും ഇവിടെ കാണിച്ചിരിക്കുന്നു ഞാൻ ഇത് മായ്ക്കാം അതുവഴി ചിത്രത്തിൽ കുറച്ച് വ്യക്തത നിലനിർത്താനാകും ഇത് ഒരു കറങ്ങുന്ന ബെയറിംഗ് ഇത് എല്ലായ്പ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബെയറിംഗ് ആണ് ഇപ്പോൾ ബെയറിംഗ് കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും അതിനോട് ചേർന്നിരിക്കുന്ന ആർക്ക് മാഗ്നറ്റുകളും ചലനത്തിലാണ് അവയും കറങ്ങുന്നു യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതാണ് നമ്മൾ സൂചിപ്പിച്ച നീല കോയിലിലുടനീളം ഇത് ഒരു ചെറിയ അളവിലുള്ള എസി വോൾട്ടേജിനെ ഉണ്ടാക്കുകയും ഉണ്ടാക്കിയ വോൾട്ടേജ് റക്റ്റിഫയർ ബ്ലോക്കിലേക്ക് മാറ്റുകയും ചെയ്യുന്നു സെന്റർ ടാപ്പ് ഇല്ലാത്തതിനാൽ നിങ്ങൾക്ക് ഒരു ബ്രിഡ്ജ് റക്റ്റിഫയർ ഇടേണ്ടി വന്നേക്കാം നിങ്ങൾ ഊർജ്ജ ഉൽപാദനം നടത്തുന്നതിനാൽ ഈ ബ്രിഡ്ജ് ഡയോഡുകളുടെ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് കഴിയുന്നത്ര കുറവാണെന്നും കഴിയുന്നത്ര ചെറുതാണെന്നും ഉറപ്പാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഷോട്ട്കീയിലേക്ക് നിങ്ങൾ പോകും ഇത് നിങ്ങൾക്ക് 0 3 വോൾട്ട് ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് നൽകും അതിനാൽ ഷോട്ട്കീ ഡയോഡുകൾ തിരഞ്ഞെടുക്കുക അതുവഴി നിങ്ങൾക്ക് അത് ഉറപ്പാക്കാൻ കഴിയും നിങ്ങൾ ഉൽപാദിപ്പിക്കുന്ന ഊർജ്ജത്തിന്റെ അളവ് പരമാവധി വർദ്ധിപ്പിക്കാൻ കഴിയും ഇപ്പോൾ മറ്റൊരു ബ്ലോക്ക് കാണുന്നു ഒരുപക്ഷേഇത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല ഇതാണ് ബൂസ്റ്റ് കൺവെർട്ടർ ഞാനിത് ഇവിടെ എഴുതിയിട്ടുണ്ട് പക്ഷേ വിശദീകരണ ആവശ്യത്തിനായി ഞാൻ ഇത് എഴുതാം ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ മൈക്രോകൺട്രോളർ സാധാരണ 1 8 വോൾട്ട് മുതൽ 3 6 വോൾട്ട് വരെ പ്രവർത്തിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ഡിസിയിൽ നിന്ന് പുറത്തെടുക്കുന്നത് ഇതല്ല ഇവിടെ ഈ വോൾട്ടേജ് ഇല്ല ഇപ്പോൾ ചോദ്യം നിങ്ങൾ ഈ വോൾട്ടേജ് എങ്ങനെ സൃഷ്ടിക്കും ഇത് എങ്ങനെ സൃഷ്ടിക്കാം അല്ലെങ്കിൽ 1 8 മുതൽ 3 6 വരെ വോൾട്ടേജ് നിങ്ങൾ ഇത് എങ്ങനെ സൃഷ്ടിക്കും അതിനായി അവർ ഈ ബൂസ്റ്റ് കൺവെർട്ടർ ഉപയോഗിക്കുന്നു 250ന്റെ പരിധിയിൽ എവിടെ വേണമെങ്കിലും അതിന് എടുക്കാം ഇപ്പോൾ ഞാൻ പറയും അത് യാഥാസ്ഥിതികത ആണ് അത് അവിടെ പ്രവർത്തിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ 400 മില്ലിവോൾട്ടിന് മുകളിലേക്ക് 400 മില്ലിവോൾട്ട് ഡിസി ഇൻപുട്ടായി എടുത്ത് 1 8 വോൾട്ട് മുതൽ3 6 ലേക്ക് നേരിട്ട് സൃഷ്ടിക്കാൻ കഴിയും അതാണ് ഈ ബൂസ്റ്റ് കൺവെർട്ടറിന്റെ പ്രവർത്തനം ഇപ്പോൾ ഈ ബൂസ്റ്റ് കൺവെർട്ടർ നിങ്ങൾക്ക് രണ്ട് ഔട്ട്പുട്ടുകൾ നൽകുന്നു ഒന്നിനെ വി എൽ ഡി ഒ എന്നും മറ്റേതിനെ വി ഔട്ട് എന്നും വിളിക്കുന്നു വിശദീകരണത്തിനായി ഞാൻ ഇവിടെ എല്ലാം മായ്ച്ച് കഥ തുടരട്ടെ നമ്മുടെ പക്കലുള്ള നമ്മൾ സ്കെച്ചിംഗ് ചെയ്യുന്ന വ്യത്യസ്ത ഘടകങ്ങളെക്കുറിച്ച് നിങ്ങൾ കുറിപ്പുകൾ നിർമ്മിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് അതിനാൽ ഇവിടെ നമുക്ക് രണ്ട് ഔട്ട്പുട്ടുകൾ ഉണ്ട് ഒന്ന് വി എൽ ഡി ഒ എന്ന് വിളിക്കുന്നു ഈ എൽ ഡി ഒ യഥാർത്ഥത്തിൽ ലോ ഡ്രോപ്പ് ഔട്ട് റെഗുലേറ്റർ നെ സൂചിപ്പിക്കുന്നു നിങ്ങൾ തിരയുന്നത് വി ഔട്ട് ആണ് അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് വി എൽ ഡി ഒ വി ഔട്ട്ഉണ്ട് സമയം കാണുക 0552 വി ഔട്ട് 2 8 വോൾട്ടായി സജ്ജീകരിക്കുന്നതിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അതിനെ കൂടുതൽ താഴ്ന്നതാക്കാൻ എന്നെ അനുവദിക്കുക അത് പ്രവർത്തിക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഉദാഹരണം എടുക്കും നിങ്ങൾക്ക് 2 3 വോൾട്ടിൽ താൽപ്പര്യമുണ്ടെന്ന് പറയട്ടെ ഇത് 3 2ൽ വെക്കുന്നത് നല്ലതാണ് 2 വോൾട്ടിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ട് അതിനാൽ വി ഔട്ട് ഇപ്പോൾ 3 2 വോൾട്ടായി സജ്ജമാക്കി ഇപ്പോൾ ഈ ബൂസ്റ്റ് കൺവെർട്ടർന് ഇവിടെ ഇൻപുട്ടിൽ 400 മില്ലിവോൾട്ട്ഉണ്ട് അത് ഉൽപാദിപ്പിക്കുന്ന ആദ്യത്തെ ഔട്ട്പുട്ട് വി എൽ ഡി ഒ ആണ് വി എൽ ഡി ഒ ന്റെ പ്രത്യേകത LTC3105 എന്ന് വിളിക്കുന്ന ചിപ്പിന് ഉള്ളതാണ് ഈ ചിപ്പിന്റെ പ്രത്യേകത കൂടുതൽ പവർ എടുക്കാൻ ഇത് നിങ്ങളെ അനുവദിക്കില്ല എന്നതാണ് അതിന് കുറഞ്ഞ പവർ ഔട്ട്പുട്ടാണ് കുറഞ്ഞ പവർ ഔട്ട്പുട്ട് എന്ന് ഞാൻ പറയും നിങ്ങൾക്ക് 6 മില്ലി ആമ്പിയറിൽ കൂടുതൽ കറന്റ് എടുക്കാൻ കഴിയില്ല എന്ന് ഞാൻ കരുതുന്നു അതിനാൽ സാധാരണ വി എൽ ഡി ഒ സജ്ജീകരിക്കാനും കഴിയും അവ തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ കരുതുന്നു നൽകിയ വോൾട്ടേജിലേക്ക് നിങ്ങൾ വിഔട്ട് സജ്ജമാക്കുകയാണെങ്കിൽവി എൽ ഡി ഒ ഒരു നിശ്ചിത വോൾട്ടേജായിരിക്കും നമ്മൾ വിശദാംശങ്ങളിലേക്ക് കടക്കില്ല എന്നാൽ ബ്ലോക്ക് ലെവൽ മനസിലാക്കും എന്നാൽ പ്രധാനപ്പെട്ട കാര്യം ഈ വി എൽ ഡി ഒ ഉയർന്ന പവർ ആപ്ലിക്കേഷനുകൾക്കായി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയില്ല ഐഒടിയുടെ മുഴുവൻ മേഖലയും ഈ എംബഡഡ് സിസ്റ്റങ്ങളുടെ രൂപകൽപ്പനയാണ് നിങ്ങൾ ഉയർന്ന പവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകം തന്നെ 10 മില്ലീപെയറുംകളിൽ ഉയർന്ന പവറിനെക്കുറിച്ച് സംസാരിക്കുന്നു അതാണ് വസ്തുത 10 മില്ലി ആമ്പിയറും 3 വോൾട്ടും എന്ന് പറഞ്ഞാൽ അത് വളരെയധികം പവറാണ് അതിനാൽ നിങ്ങൾ 30 മില്ലി വാട്ട് പറഞ്ഞാൽ എംബഡഡ് സിസ്റ്റങ്ങൾക്ക് 30 മില്ലിവാട്ട് വളരെയധികം ശക്തിയാണ് അതിനാൽ ഞാൻ പറയും 3 വോൾട്ട് 10 മില്ലി ആമ്പിയർ എന്ന് പറഞ്ഞാൽ ഇത് ശരിയായി എഴുതാൻ കഴിയുന്നില്ല 3വോൾട്ട് 10 മില്ലി ആമ്പിയർ എന്ന് പറഞ്ഞാൽ ധാരാളം ശക്തിയാണ് അതേസമയം 3 വോൾട്ടും 1 മില്ലി ആമ്പിയറും എന്ന്പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും 3 മില്ലി വാട്ടിലാണ് അത് ഇപ്പോഴും നല്ലതാണ് അതിനാൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഈ വി എൽ ഡി ഒ ഇൽ നിങ്ങൾക്ക് ഉയർന്ന ശക്തി എടുക്കാൻ കഴിയില്ല എന്നതാണ് നിങ്ങൾക്ക് പരമാവധി എടുക്കാൻ കഴിയുന്നത് മികച്ച വ്യക്തതയ്ക്കായി നിങ്ങൾ ഡാറ്റാ ഷീറ്റ് നോക്കാൻ ആഗ്രഹിച്ചേക്കാം ഏകദേശം 6 മില്ലി ആമ്പിയർ ആണ് ഈ ഘട്ടത്തിൽ ഞാൻ ഡാറ്റാ ഷീറ്റിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല പക്ഷേ ഞാൻ ഇവിടെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അൽഗോരിതം കാണിച്ചു തരാം അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് വി എൽ ഡി ഒ നിങ്ങൾക്ക് ലഭ്യമാണ് നമുക്ക് ഒരു സ്ഥിരതയുളള 400 മില്ലിവോൾട്ട് ഇവിടെ ഇൻപുട്ടിൽ ഉണ്ടെന്ന് പറയാം ഈ പവർ മക്സ് രണ്ട് ഇൻപുട്ട് എടുക്കുന്നു ഒന്ന് സൂപ്പർ കപ്പാസിറ്ററിൽ നിന്നും മറ്റൊന്ന് വി എൽ ഡി ഒ ൽ നിന്നും വരുന്നു നിങ്ങൾ ഒരു വലിയ കപ്പാസിറ്റർ ഇടുകയാണെങ്കിൽ വ്യക്തമായും ഇവിടെ ഊർജ്ജ സംഭരണം മന്ദഗതിയിലാകും കാരണം പ്ലേറ്റുകൾ വളരെ വലുതാണ് കപ്പാസിറ്ററിന്റെ വിസ്തീർണ്ണം വലുതാണ് ഇത് സാവധാനം കെട്ടിപ്പടുക്കണം ഒരു സ്ഥിരതയുള്ള ഘട്ടത്തിൽ അത് യഥാർത്ഥത്തിൽ സജ്ജമാക്കിയ 3 2 വോൾട്ടിലേക്ക് എത്തും എന്നിരുന്നാലും ആ സജ്ജമാക്കിയ വോൾട്ടേജിൽ എത്താൻ സമയമെടുക്കും അത് ഈ കപ്പാസിറ്ററിന്റെ മൂല്യത്തെ മാത്രം ആശ്രയിച്ചിരിക്കും അതാണ് ഇവിടെ പ്രധാന കാര്യം അതിനാൽ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പുനർവിതരണം നൽകുന്ന ഒന്നായി വി എൽ ഡി ഒ ഇപ്പോൾ മാറുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു വി എൽ ഡി ഒ ഇപ്പോഴും കൂടിവരുന്നു 0 1 വോൾട്ടിൽ നിന്ന് 0 2 വോൾട്ടിലേക്ക് കൂടി കൂടി കൂടി ഈ കപ്പാസിറ്ററിൽ 3 2 വോൾട്ടിലെത്തുന്നു അതിനാൽ അതിലേക്ക് എത്താൻവ്യക്തമായും വളരെയധികം സമയമെടുക്കുന്നു അത് ഈ ഉല്പാദിപ്പിക്കുന്ന ഉറവിടത്തിൽ നിന്ന് ഈ കോയിലും ഈ കാന്ത സ്രോതസ്സിലും നിന്ന് 3 2 വോൾട്ടിലെത്തി എന്നത് തന്നെ ഉപയോഗപ്രദമായ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് ഇത് യഥാർത്ഥത്തിൽ ഉപയോഗിക്കാമെന്ന് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഈ പവർ മക്സിൽ നിന്നുള്ള ആദ്യത്തെ ഔട്ട്പുട്ട് വി എൽ ഡി ഒ ആണ് നമ്മൾ ഇപ്പോൾ മൈക്രോകൺട്രോളർ സ്വിച്ച് ഓൺ ചെയ്യുന്നു നമ്മൾ കാന്തികക്ഷേത്രത്തിന്റെ മൂല്യം മുമ്പത്തെ ഗ്രാഫിൽ ഞാൻ കാണിച്ച എ സി മൂല്യം ലഭിക്കുന്നതിന് ഹാൾ സെൻസറിനെ ഊർജ്ജസ്വലമാക്കുന്നു ഇതാണ് എ സി അതിനാൽ എ സിയിൽ ഞാൻ നിങ്ങൾക്ക് 450 500 സംഖ്യ പരിധി എല്ലാം കാണിച്ചു അതിനാൽ ആ സംഖ്യ നിങ്ങൾ ഇവിടെ കാണും അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ഹാൾ സെൻസറിന്റെ മൂല്യം നിങ്ങൾ മനസിലാക്കി റാമിൽ സംഭരിക്കുക അതേസമയം ബൂസ്റ്റ് കൺവെർട്ടറിന്റെ ഇൻപുട്ടിൽ ധാരാളം ഊർജ്ജ പ്രവാഹം ഉള്ളതിനാൽ ബൂസ്റ്റ് കൺവെർട്ടറിൽ നിന്നുള്ള ഔട്ട്പുട്ട് കൂടാൻ തുടങ്ങുന്നു ബൂസ്റ്റ് കൺവെർട്ടർ ആവശ്യത്തിന് നല്ല ഇൻപുട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കി പവർ ഗുഡ് എന്ന് വിളിക്കുന്ന ഒരു സിഗ്നൽ നൽകുന്നു ഞാൻ ഇത് വീണ്ടും എഴുതട്ടെ പവർ ഗുഡ് സൃഷ്ടിക്കുന്നു ആ നിമിഷം പവർ ഗുഡ് സിഗ്നൽമൈക്രോകൺട്രോളറിലേക്ക് വരുന്നു പവർ മക്സ് യഥാർത്ഥത്തിൽ അപ്പോൾ വി എൽ ഡി ഒ ൽ നിന്ന് മാറിയിരിക്കും തുടക്കത്തിൽ വി സപ്ലൈ എന്നത് വി എൽ ഡി ന് തുല്യമായിരുന്നു ഇപ്പോൾ വി സപ്ലൈ വി ഔട്ട് ന് സമമായി മാറുന്നു ഈ അവസ്ഥ വരുന്ന നിമിഷം ഉയർന്ന ഊർജ്ജത്തിനുള്ള സമയമാണിതെന്ന് മൈക്രോകൺട്രോളർ തീരുമാനിക്കുന്നു കണക്കുകൂട്ടൽ ആശയവിനിമയം എന്നിവ പോലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു ബ്ലൂടൂത്ത് ഡാറ്റ പാക്കറ്റ് ബ്ലൂടൂത്ത് ലോ എനർജി ഡാറ്റ പാക്കറ്റ് അയയ്ക്കാൻ തീരുമാനിക്കുന്നു കാരണം സൂപ്പർ കപ്പാസിറ്റർ ബ്ലൂടൂത്ത് ലോ എനർജി പാക്കറ്റിന് ആവശ്യമായ ഊർജ്ജം നൽകി അതിനാൽ വി ഔട്ട് ഇപ്പോൾ കുറയുന്നു വി ഔട്ട് താഴേക്ക് വീഴുമ്പോൾപി ഗുഡ് സിഗ്നൽ വ്യക്തമായും അതിന്റെ ഒറിജിനൽ സ്റ്റാറ്റസിലേക്ക് പഴയപടി പോകുന്നു മൈക്രോകൺട്രോളർ റേഡിയോ പോലെ ഉളള എല്ലാ വൈദ്യുതി ഉപഭോഗ ബ്ലോക്കുകളും ഓഫ് ചെയ്യാൻ തീരുമാനിക്കുന്നു അതുപോലെ സ്വയം സ്ലീപ്പ് മോഡിലേക്ക് പോകുകയും ആശയവിനിമയം നടത്താൻ അടുത്ത പി ഗുഡ് നായി കാത്തിരിക്കുകയും ചെയ്യും പിസിബിയിൽ യഥാർത്ഥത്തിൽ നടപ്പിലാക്കിയതിന്റെ ബ്ലോക്ക് ഡയഗ്രം ഇതാണ് അടിസ്ഥാനപരമായി ഇവയെല്ലാം അർത്ഥമാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതാണ് എംബഡഡ് ഉപകരണങ്ങൾക്കുള്ള പവർ മാനേജുമെന്റ് ഊർജ്ജ ഉൽപാദനം ഞാൻ പറയട്ടെ എംബഡഡ് ഉപകരണങ്ങൾക്കായുളള ഉൽപാദനം വളരെ പ്രധാനമാണ് അതിനാൽ ബെയറിങ്ങുകൾകായുള്ള ഈ താപനില അളക്കൽ ഒരു ഫ്ലോചാർട്ടിലേക്ക് പകർത്താം നമുക്ക് ഈ ഫ്ലോചാർട്ട് വ്യക്തമായ രീതിയിൽ വിശദീകരിക്കാം അതിനാൽ ഒരു ഐഒടി സിസ്റ്റം എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാം ഐഒടി ഉപകരണം ഒരു ഐഒടി ഉൽപ്പന്നം ബെയറിംഗ് താപനില അളക്കൽ അല്ലെങ്കിൽ താപനില നിരീക്ഷണം ചെയ്യുന്ന ഒരു ഐഒടി സിസ്റ്റം യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഈ ചെറിയ ഫ്ലോചാർട്ടിൽ കാണാം അതിനാൽ നിങ്ങൾ എങ്ങനെ ആരംഭിക്കും മുഴുവൻ പ്രക്രിയയും എന്താണ് നമുക്ക് ഇതിലേക്ക് ഒരു ഫ്ലോചാർട്ടിലേക്ക് മടങ്ങാം പ്രധാനമായും ഞാൻ എന്തു ചെയ്യുമെന്നാൽഎനിക്ക് ഈ ഫ്ലോചാർട്ട് ഇവിടെ ഉണ്ട് ആദ്യത്തെ ബ്ലോക്ക് തീർച്ചയായും നിങ്ങൾ ഇവിടെ കാണുന്ന സ്റ്റാർട്ട് ബ്ലോക്കാണ് ഇതാണ് സ്റ്റാർട്ട് ബ്ലോക്ക് അതിനുശേഷം ഈ ബ്ലോക്ക് ഈ ബ്ലോക്ക് ജിപിഐഒ ഇനീഷ്യലൈസേഷനാണ് അത് എന്താണ് അർത്ഥമാക്കുന്നത് ഇതിനർത്ഥം പവർ ഗുഡ് സിഗ്നൽ ഇത് മൈക്രോകൺട്രോളറിനുളള ഇൻപുട്ട് പോലെയാണ് ആ പ്രത്യേക ഇൻപുട്ട് ജിപിഐഒ ലൈൻ ഇൻപുട്ടായി ക്രമീകരിച്ചിരിക്കുന്നു എല്ലാം ജിപിഐഒ ഇനീഷ്യലൈസേഷൻ ബ്ലോക്കായ ഈ ബ്ലോക്കിലാണ് പ്രവർത്തനം നടക്കുന്നത് പിന്നെ നിങ്ങൾ ചെയ്യുന്നതെന്താണ് നിങ്ങൾ പ്രധാനമായും മൈക്രോകൺട്രോളർ സ്ലീപ് മോഡിൽ വയ്ക്കുക പി ഗുഡ് കുറവായിരിക്കുന്നിടത്തോളം കാലം സ്ലീപ് മോഡിൽ നിലനിർത്തുക മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പി ഗുഡ് സിഗ്നൽ കുറവാണ് എങ്കിൽ അതിനർത്ഥം ആശയവിനിമയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല വി എൽ ഡി ഒ ഔട്ട്പുട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് സിഗ്നൽ സെൻസിംഗ് ചെയ്യാൻ കഴിയും എന്നാൽ നിങ്ങൾക്ക് വി എൽ ഡി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യമാണ് ഇത് പക്ഷേ അത് പൂർണ്ണമായും ഈ ചെറിയ ഫ്ലോചാർട്ടിൽ പിടിച്ചെടുത്തിട്ടില്ല അതിനാൽ ഉയർന്ന തലത്തിൽ പി ഗുഡ് കുറവാണെങ്കിൽ നിങ്ങൾ സ്ലീപ് ലേക്ക് പോകുന്നു പി ഗുഡ് ഉയർന്നതായിത്തീരുമ്പോൾ നിങ്ങൾ ഇറങ്ങിവരുന്നുനിങ്ങൾ നിരവധി സെൻസറുകൾ പ്രവർത്തനക്ഷമമാക്കുന്നു എ ഡി സി മൂല്യം വീണ്ടും നോക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം പിഗുഡ്മികച്ചതായി തുടരുന്നുണ്ടോയെന്ന് പരിശോധിക്കുക പി ഗുഡ് താഴ്ന്നത് അറിയുകയാണെങ്കിൽ ഒന്നും ചെയ്യാതെ സ്ലീപ് ലേക്ക് പോകുക നിങ്ങൾ ചെയ്യുമായിരുന്ന നല്ല കാര്യംനിങ്ങൾക്ക് ഒരു മൂല്യം ലഭിക്കുമായിരുന്നു യഥാർത്ഥത്തിൽ വി എൽ ഡി ഒ ഉപയോഗിച്ച് സെൻസർ മൂല്യം നോക്കി നിങ്ങളുടെ റാമിലേക്ക്സംഭരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു പി ഗുഡ് ഉയർന്നതായി തുടരുന്ന നിമിഷംകപ്പാസിറ്റർ വേണ്ടത്ര ചാർജ്ജ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം മുമ്പത്തെ സൂപ്പർ കപ്പാസിറ്ററിലെചാർജ് ചെയ്ത സൂപ്പർ ക്യാപ് ഇതാണ് റേഡിയോ സർക്യൂട്ടിനായി ഉയർന്ന പവർ നൽകാൻ ഇപ്പോൾ ഇത് തയ്യാറാണ് സെൻസർ ഡാറ്റ വച്ച് ഒരു ബി എൽ ഇ ട്രാൻസ്മിഷൻ ഇപ്പോൾ സാധ്യമാണ് ആ ഡാറ്റ ഹാൾ സെൻസറിൽ നിന്ന് എഡിസിയിലേക്ക് മൈക്രോകൺട്രോളറിന്റെ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ പിൻ ഇൽ ലഭിച്ചതാണ് ഒരു ബി എൽ ഇ ട്രാൻസ്മിഷൻ നടത്തിയ ഉടൻ എന്ത് സംഭവിക്കുന്നു സിസ്റ്റം യാന്ത്രികമായി അടച്ചുപൂട്ടുന്നു കാരണം സൂപ്പർ കപ്പാസിറ്ററിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് സാധാരണ തരുന്നതിനെക്കാൾ ഗണ്യമായി കുറയുകയും പി ഗുഡിനെ താഴേക്ക് വലിക്കുകയും ചെയ്യുന്നു സിസ്റ്റം വീണ്ടും ഒരു തണുത്ത ആരംഭ സാഹചര്യത്തിലേക്ക് പോകുന്നു ഇതാണ് പ്രധാനമായും ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച ഈ പവർ മാനേജുമെന്റ് ഫ്ലോചാർട്ടിൽ ചെയ്യുന്നത് ഞാൻ വേഗത്തിൽ ഊർജ്ജ ഉൽപാദനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാണിച്ചുതരാം ബെയറിംഗ് റൊട്ടേഷൻ ആർപിഎമ്മിനെ സൂചിപ്പിക്കുന്ന x അക്ഷത്തിന്റെ ചിത്രമാണിത് ഇത് ഉൽപാദിപ്പിച്ച ഊർജ്ജത്തെ സൂചിപ്പിക്കുന്നു ബെയറിംഗ് വേഗത വർദ്ധിക്കുമ്പോൾ റൊട്ടേഷൻ ആർപിഎം വർദ്ധിക്കുന്നുഇത് വ്യക്തമാണ് ഊർജ്ജം വിളവെടുക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു കുറഞ്ഞത് 3 5 മില്ലിജൂൾ ഊർജ്ജത്തിൽ നിന്ന് 9 മില്ലിജൂൾ ഊർജ്ജം വരെ ഉല്പാദിപ്പിക്കുന്നു അതിനാൽ ഉൽപാദിപ്പിച്ച ഊർജ്ജം ഉപയോഗിച്ച് മുഴുവൻ സിസ്റ്റത്തിനും പ്രവർത്തിക്കാൻ കഴിയാൻ ഒരു പ്രധാന ആവശ്യകതയാണ് ബെയറിംഗ് വേഗത എന്നതിന്റെ വ്യക്തമായ ഒരു സൂചകം ആണിത് ചുരുക്കത്തിൽ ഈ ബോൾ ബെയറിംഗ് സിസ്റ്റത്തിന്റെ ഈ മനോഹരമായ ചിത്രത്തിലേക്ക് നമുക്ക് മടങ്ങാം ബെയറിംഗ് കറങ്ങുന്നു തകരാറുമൂലം ചൂടാകുന്നു അത്ഈ നിയോഡൈമിയം കാന്തങ്ങൾ മനസ്സിലാക്കുന്നു താപനിലയിലെ മാറ്റം കാരണം കാന്തികക്ഷേത്രത്തിൽ മാറ്റം ഉണ്ടാകുന്നു ഈ ഹാൾ സെൻസറിന് മൈക്രോകൺട്രോളർ യൂണിറ്റിലേക്ക് ഒരു വഴി നൽകി അത് പ്രധാനമായും കാന്തികക്ഷേത്രത്തെ അളക്കുന്നു കാന്തികക്ഷേത്രത്തിലെ മാറ്റം മൂലമാണ് ഇവിടെ നീല കോയിൽ ഊർജ്ജം ഉല്പാദിപ്പിക്കുന്നത് ഈ കേബിളിൽ ഇവിടെയുള്ള ആർക്ക് കാന്തങ്ങൾ ഒരു റക്റ്റിഫയർ സർക്യൂട്ടിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു ബൂസ്റ്റ് കൺവെർട്ടർ പവർ മാനേജുമെന്റ് സർക്യൂട്ടുകൾ വഴി അവസ്ഥ മെച്ചപ്പെടുത്തി ഇത് ഇവിടെ ഈ കപ്പാസിറ്റർ ഈ സൂപ്പർ കപ്പാസിറ്ററിൽ ഊർജ്ജം സംഭരിച്ചു ഈ സൂപ്പർ കപ്പാസിറ്ററും മുഴുവൻ സർക്യൂട്ടും അതിൽ ഒരു മൈക്രോകൺട്രോളർ അടങ്ങിയിരിക്കുന്നു തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ ഒരു ചിപ്പ് ആന്റിന കാണാൻ കഴിയും ഇത് ബ്ലൂടൂത്ത് ലോ എനർജി ആന്റിന ആണ് ചുരുക്കത്തിൽ അർത്ഥമാക്കുന്നത്നിരവധി കാര്യങ്ങൾ നമ്മൾ ശരിയായി ചെയ്തു എന്നാണ് നമ്മൾ താപനിലയെ പരോക്ഷമായി അളന്നു നമ്മൾ ഊർജ്ജവും ഉൽപാദിപ്പിച്ചു യഥാർത്ഥത്തിൽ ഒരു സെമി ഐഒടി സിസ്റ്റം നിർമ്മിച്ചു നമ്മൾ അളവെടുപ്പ് നടത്തി ചില കണക്കുകൂട്ടലുകൾ നടത്തി ആശയവിനിമയവും നമ്മൾ ചെയ്തു നമ്മൾ ഇതിനെ സെമി ഐഒടി സിസ്റ്റം എന്ന് വിളിക്കുന്നു കാരണം നമ്മൾ ഒരു ആക്റ്റിവേഷൻ ഭാഗത്ത് പ്രവേശിച്ചിട്ടില്ല നമ്മൾ ലൂപ്പ് അടച്ചില്ല നമ്മൾ ബെയറിംഗ് ജാം ചെയ്തില്ല ഉദാഹരണത്തിന് നമ്മൾ വാഹനത്തിൽ ബ്രേക്ക് ജാം ചെയ്തില്ലഅല്ലെങ്കിൽ ഈ ബെയറിംഗുകൾക്ക് അസാധാരണമായ ഒരു അവസ്ഥ കാണുന്നതിനാൽ ലാത്ത് കറങ്ങുന്നത് നിർത്തുന്നില്ല നമ്മൾ അത് ചെയ്തിട്ടില്ല അതിനാൽ ഇവയെല്ലാം അർത്ഥമാക്കുന്നത് നിങ്ങൾ നേടുന്ന ഡാറ്റയെക്കുറിച്ച് ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് പ്രവേശിക്കണം എന്നാണ് ഇത്തരത്തിലുള്ള തേയ്മാനത്തിന്റെ പ്രവണത കാണുക തുടർന്ന് ഈ ബെയറിംഗ് ഘടകങ്ങൾ മാറ്റിസ്ഥാപിക്കാനുള്ള സമയമാണിതെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ക്ഷമയ്ക്ക് വളരെ നന്ദി നമ്മൾ അടുത്ത മൊഡ്യൂളായി പവർ മാനേജുമെന്റ് കൈകാര്യം ചെയ്യും ഈ ഉദാഹരണം ഉപയോഗിച്ച് അടുത്ത ക്ലാസിൽ പവർ മാനേജുമെന്റിൽ നിന്ന് ആരംഭിക്കാം